അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നമ്മൾ രണ്ട് വ്യത്യസ്ത ഉപകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒന്ന് ഫംഗ്ഷൻ ജനറേറ്ററാണ് അത് ഇവിടെത്തന്നെ ഉണ്ട് മറ്റൊന്ന് ഓസിലോസ്കോപ്പുകളാണ് 2 ഓസിലോസ്കോപ്പുകൾ എൻറെ കയ്യിൽ ഉണ്ട് ശരിയാണ് ഓസിലോസ്കോപ്പുകളിലേക്ക് നീങ്ങുന്നതിനുമുമ്പ് ഫംഗ്ഷൻ ജനറേറ്റർ എന്താണെന്നും ഫംഗ്ഷൻ ജനറേറ്ററിന്റെ പങ്ക് എന്താണെന്നും ആദ്യം മനസിലാക്കാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ഫംഗ്ഷൻ ജനറേറ്റർ നിരവധി വ്യത്യസ്ത സിഗ്നലുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് ശരിയാണ് സിഗ്നലുകൾ എന്നു പറഞ്ഞാൽ നിങ്ങൾ എസി സിഗ്നലിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത് സാധാരണയായി സൈൻ വേവ് ആണ് പക്ഷെ എനിക്ക് സ്ക്വയർ വേവ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ത്രികോണ തരംഗം ലഭിക്കണമെങ്കിൽ എങ്ങനെ ലഭിക്കും ചതുര തരംഗങ്ങൾക്ക് അല്ലെങ്കിൽ ത്രികോണ തരംഗങ്ങൾ എനിക്ക് ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയും ഈ ഫംഗ്ഷൻ ജനറേറ്റർ ടെക്ട്രോണിക്സിൽ നിന്നുള്ളതാണ് നിങ്ങൾ ഏത് കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത് എന്നത് പ്രശ്നമല്ല ഇപ്പോൾ നമ്മൾക്ക് പ്രകടനത്തെക്കുറിച്ച് ആശങ്കയില്ല തീർച്ചയായും പ്രകടനത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതാണ് പക്ഷേ പ്രകടനം കൃത്യത മിഴിവ് എന്താണെന്ന് നിങ്ങളെ മനസിലാക്കുന്നതിനല്ല ഈ മൊഡ്യൂൾ ഫംഗ്ഷൻ ജനറേറ്റർ എന്താണെന്നും അത് എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസിലാക്കുക എന്നതാണ് ഈ മൊഡ്യൂൾ അവസാന 2 മൊഡ്യൂളുകൾ മുതൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ടീച്ചിംഗ് അസിസ്റ്റന്റ് സീതാറാമിനോട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവൻ നമ്മെ സഹായിക്കും പവർ ബട്ടൺ അമർത്താൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുമ്പോൾ അവൻ അത് അമർത്തും അതിനാൽ എനിക്ക് സംസാരിക്കാൻ എളുപ്പമാണ് കൂടാതെ ഫംഗ്ഷൻ ജനറേറ്റർ മനസിലാക്കാൻ നിങ്ങൾക്കും എളുപ്പമാണ് ശരിയാണ് ഇത് ഇതിനകം 220 വോൾട്ടുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് പവർ ബട്ടൺ അതിനാൽ നമ്മൾ പവർ ബട്ടൺ ബന്ധിപ്പിക്കുന്നു നിങ്ങൾ ഡിസ്പ്ലേ കാണും ഇത് എല്ലായ്പ്പോഴും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇത് എല്ലായ്പ്പോഴും കമ്പനി ഫംഗ്ഷൻ ജനറേറ്ററുകളിൽ നിന്ന് ആരംഭിക്കുന്നു അത് മികച്ചതാണ് ഇപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് നമ്മൾ കാണുന്നത് വളരെ പ്രധാനമാണ് ശരിയാണ് അതിനാൽ ഫോക്കസ് ചെയ്യുക ആദ്യം നമ്മൾ കാണുന്നത് സൈൻ വേവ് ആണ് അതെ ഇത് സൈൻ വേവ് ആണ് ശരിയാണ് ഇപ്പോൾ എനിക്ക് ഈ സൈൻ തരംഗം പരിവർത്തനം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സൈൻ തരംഗത്തിനുപകരം ഒരു ചതുര തരംഗം പ്രയോഗിക്കണമെങ്കിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് സൈൻ വേവ് സ്ക്വയറിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അവിടെ നിങ്ങളുടെ ഡ്യൂട്ടി സൈക്കിൾ സമയവും വ്യത്യസ്തമായിരിക്കും അത് നമ്മൾ പിന്നീട് കാണും അതിനാൽ ഇത് ഒരു ചതുര തരംഗമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും അതൊരു വ്യത്യസ്തമായ വിഷയമാണ് എന്നാൽ ഇപ്പോൾ തരംഗം ചതുരാകൃതിയിലുള്ളതായി നമുക്ക് കാണാം അടുത്തത് റാമ്പാണ് ഇത് ഒരു റാമ്പ് സിഗ്നലാണെന്ന് നിങ്ങൾ കാണുന്നു ശരിയാണ് എനിക്ക് പൾസ് കാണണമെങ്കിൽ എനിക്ക് പൾസ് കാണാൻ കഴിയും ശരിയാണ് എനിക്ക് അനിയന്ത്രിതമായ സിഗ്നൽ കാണണമെങ്കിൽ എനിക്ക് അനിയന്ത്രിതമായ ബട്ടൺ അമർത്താം ശബ്ദം കാണണമെങ്കിൽ എനിക്ക് ശബ്ദം അമർത്താം അതിനാൽ വ്യത്യസ്ത തരംഗരൂപങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പ്രയോഗിക്കാനാകും ഈ ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു സർക്യൂട്ടിൽ സൈൻ വേവ് അല്ലെങ്കിൽ സ്ക്വയർ വേവ് അല്ലെങ്കിൽ റാമ്പ് അല്ലെങ്കിൽ പൾസ് അല്ലെങ്കിൽ അനിയന്ത്രിതമായ സിഗ്നൽ അല്ലെങ്കിൽ ശബ്ദം എന്നിവയെല്ലാം പ്രയോഗിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതെന്താണ് അതിനാൽ ഞാൻ നിങ്ങളെ ചാനലുകൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരു ചാനൽ കാണാൻ കഴിയുമോ സീതാറാം ചാനൽ ഒന്ന് അമർത്താമോ അതിനാൽ ഇപ്പോൾ ഇത് ചാനൽ ഒന്നാണ് ഇപ്പോൾ മറ്റൊന്ന് അമർത്തിയാൽ ഇത് ചാനൽ 2 ആണ് അതിനാൽ നിങ്ങൾ ചാനൽ ഒന്ന് ചാനൽ 2 കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ചാനലുകൾ ഉണ്ട് ശരിയല്ലേ ഇവ രണ്ടു ചാനലുകൾ ഒരുമിച്ച് ഉള്ളവയാണ് അതിനാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ചാനൽ ഒന്ന് വഴി സിഗ്നൽ പ്രയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ 2 വഴി സിഗ്നൽ പ്രയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേസമയം രണ്ട് ചാനലുകളിലൂടെയും സിഗ്നൽ പ്രയോഗിക്കാൻ കഴിയും ശരിയാണ് അതിനാൽ ഇവിടെ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് നമ്മൾ അത് വീണ്ടും അമർത്തുന്നു അതിനർത്ഥം മോഡ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ചാനൽ ഒന്നിലേക്ക് മടങ്ങാം ഇപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് മാറുമ്പോൾ ചാനൽ ഒന്ന് ഡിസ്പ്ലേയിലും കാണും അതിനാൽ നിങ്ങൾക്ക് മനസിലാക്കാൻ എളുപ്പമാണ് ഡിസ്പ്ലേ ചാനൽ ഒന്ന് കാണുക ഫംഗ്ഷൻ ജനറേറ്ററിൽ നിരവധി കാര്യങ്ങളുണ്ട് ഒന്ന് ചാനൽ ഒന്നിലെ ഓൺ ഓഫ് ബട്ടൺ ചാനൽ 2 ലെ ഓൺ ഓഫ് ബട്ടൺ അതിനാൽ ഏത് ചാനലാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് പ്രത്യേക probe ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇവിടെ ആവൃത്തി മാറ്റാൻ കഴിയും ഇപ്പോൾ ഇത് ഒരു കിലോഹെർട്സ് ആവൃത്തിയാണ് മാനുവൽ ട്രിഗറിനായുള്ള ഈ പുഷ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആവൃത്തി മാറ്റാൻ കഴിയും അതിനാൽ ഇവ നോബുകളാണ് നിങ്ങൾക്ക് നോബ് മാറ്റാൻ കഴിയും കൂടാതെ ആവൃത്തിയിലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും ആവൃത്തി ഒരു കിലോഹെർട്സ് 2 കിലോഹെർട്സ് എന്നിങ്ങനെ പോകുന്നു നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയും അതിനാൽ നമ്മൾ ആവൃത്തി മാറ്റുമ്പോൾ നിങ്ങൾക്ക് സമയത്തിലെ മാറ്റം കാണാനും കഴിയും അതിനാൽ നിങ്ങൾക്ക് ആവൃത്തി മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ പ്രത്യേക y അക്ഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അവിടെ അത് 33 33 മൈക്രോസെക്കൻഡുകൾ കാണിക്കുന്നു ഞാൻ ആവൃത്തി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് മാറുകയാണ് അതിനർത്ഥം ഈ സമയത്ത് സൈൻ തരംഗത്തിലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അത് ആവൃത്തി വർദ്ധിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ സമയം സ്ഥിരമായി നിലനിർത്തുകയാണെങ്കിൽ സൈൻ തരംഗത്തിലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നൽകിയിരിക്കുന്ന ബട്ടണുകൾ ഉപയോഗിച്ച് നമുക്ക് മൂല്യം മാറ്റാനും കഴിയും അതിനാൽ നമുക്ക് ഇത് നേരിട്ട് പറയാൻ കഴിയും നമുക്ക് 800 മില്ലിഹെർട്സ് ആണെന്ന് പറയാം അതിനാൽ എനിക്ക് നേരിട്ട് 800 അമർത്താം എനിക്ക് അത് നേടാനാകും എനിക്ക് ഒരു കിലോഹെർട്സ് വേണമെങ്കിൽ എനിക്ക് 1000 ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കിലോഹെർട്സ് ഓപ്ഷനും ഉപയോഗിക്കാം അതിനാൽ നമുക്ക് അത് അമർത്തിയാൽ നമുക്ക് കിലോഹെർട്സ് ഓപ്ഷൻ ലഭിക്കും അതിനാൽ ഈ സ്ക്രീനിന്റെ വശത്ത് വൈറ്റ് കളർ ബട്ടണുകളുള്ള നിരവധി ഓപ്ഷനുകൾ ഉണ്ട് അതിനാൽ ആ ഓപ്ഷനുകൾ ഓരോന്നും സിഗ്നൽ മാറ്റാൻ ഉപയോഗിക്കുന്നു ആവൃത്തിയും പിരിയടും ആയ ആദ്യത്തേത് നമുക്ക് നോക്കാം അതിനാൽ നമ്മൾ ആദ്യ ബട്ടൺ അമർത്തുമ്പോൾ അത് നിങ്ങളുടെ ആവൃത്തിയാണ് മറ്റൊന്ന് നിങ്ങളുടെ പിരിയടും ആണ് നിങ്ങളുടെ പിരിയട് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാനുവൽ ട്രിഗർ നോബ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂല്യം വീണ്ടും മാറ്റാൻ കഴിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവൃത്തി മാറ്റണമെങ്കിൽ വീണ്ടും വൈറ്റ് ബട്ടൺ അമർത്തുക നിങ്ങൾ ഫ്രീക്വൻസി മോഡിലേക്ക് മടങ്ങും വീണ്ടും നിങ്ങൾക്ക് ആവൃത്തി മാറ്റാൻ കഴിയും ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നു ഇത് എന്താണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ഓസിലേറ്ററുകൾ എന്നിവയിൽ ഇൻപുട്ട് ഘട്ടം എന്താണെന്ന് നമ്മൾ കണ്ടു Output ഘട്ടം എന്താണ് ആരംഭ ഘട്ടം എന്താണ് ഇത് 0 ഡിഗ്രിയാണോ ഇത് 90 ഡിഗ്രിയാണോ ഇത് 180 ഡിഗ്രിയാണോ നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്ന ഏത് മൂല്യവും നൽകി നിങ്ങൾക്ക് സിഗ്നലിന്റെ ഘട്ടം മാറ്റാൻ കഴിയും അതിനാൽ നമ്മൾ ഘട്ടം മാറ്റുകയാണെന്ന് കരുതുക സൈൻ തരംഗത്തിൽ ഒരു മാറ്റമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സിഗ്നലിന്റെ ഘട്ടം ഇപ്പോൾ 15 ഡിഗ്രി 16 ഡിഗ്രി എന്നിങ്ങനെ നിങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയും എന്തായാലും അടുത്തത് അടുത്ത വൈറ്റ് ബട്ടൺ ആയിരിക്കും നിങ്ങൾക്കത് 0 ലേക്ക് പുനസജ്ജമാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് കരുതുക തുടർന്ന് നിങ്ങൾക്ക് 0 എഴുതാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് വീണ്ടും എന്റർ അമർത്താനും കഴിയും അത് 0 ഡിഗ്രിയിലേക്ക് പോകുകയും ചെയ്യും ഇത് പ്രവർത്തിക്കുന്നത് വളരെ എളുപ്പമാണ് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇത് വളരെ എളുപ്പമാണ് സിസ്റ്റം വളരെ സങ്കീർണ്ണമാണെന്ന് തോന്നുകയാണെങ്കിൽ വിഷമിക്കേണ്ട യഥാർത്ഥത്തിൽ ഇത് സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു പക്ഷേ പ്രവർത്തനം വളരെ ലളിതമാണ് അല്ലേ നിങ്ങൾ എല്ലാവരും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു അല്ലേ ലാപ്ടോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ലാപ്ടോപ്പിനുള്ളിലെ സർക്യൂട്ടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എങ്ങനെ നിലവിൽ വരുന്നു സിഗ്നലുകൾ എങ്ങനെ അയയ്ക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ ഒരു ഇമെയിൽ അയയ്ക്കാം ഇത് വളരെ സങ്കീർണ്ണമാണ് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എളുപ്പത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് എളുപ്പത്തിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെയാണ് ഇതും ഇത് വളരെ സങ്കീർണ്ണമായ യന്ത്രമാണ് പക്ഷേ നിങ്ങൾ ഇത് പ്രവർത്തിപ്പിക്കുകയാണ് അതിനാൽ സങ്കീർണ്ണമായ എന്തെങ്കിലും നോക്കുമ്പോൾ വിഷമിക്കേണ്ടതില്ല പ്രവർത്തനം വളരെ ലളിതമാണ് അടുത്ത ബട്ടൺ ഒരു വെളുത്ത ബട്ടണാണ് ഇപ്പോൾ ഇത് ഇവിടെ ഒരു ആവൃത്തിയാണെന്ന് നമ്മൾ കണ്ടു നിങ്ങൾക്ക് ഇത് വീണ്ടും ഉയർന്ന നിലയിലേക്കോ താഴ്ന്ന നിലയിലേക്കോ മാറ്റാൻ കഴിയും നിങ്ങൾക്ക് ഇത് ആംപ്ലിറ്റ്യൂഡിലേക്ക് മാറ്റാൻ കഴിയും ആംപ്ലിറ്റ്യൂഡ് എന്തും ആകാം വോൾട്ടേജ് ഇപ്പോൾ പീക്ക് ടു പീക്ക് ആണ് നിങ്ങൾക്ക് ഇത് 3 വോൾട്ട് 4 വോൾട്ട് ആയി മാറ്റാൻ കഴിയും അവൻ മാറ്റുമ്പോൾ നിങ്ങൾക്ക് y അക്ഷത്തിൽ സിഗ്നലും കാണാം നിങ്ങൾ മൈനസ് 2 വോൾട്ട് മുതൽ 3 വോൾട്ട് വരെ കാണുകയാണെങ്കിൽ അതായത് ആകെ 5 വോൾട്ട് അതിനാൽ ആംപ്ലിറ്റ്യൂഡിലെ മാറ്റം നിങ്ങൾക്ക് എങ്ങനെ കാണാൻ കഴിയും നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് മാറ്റണമെങ്കിൽ മാനുവൽ ട്രിഗ്ഗർ ഉപയോഗിച്ച് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും നിങ്ങൾക്ക് കാണാനാകുന്ന അടുത്ത വൈറ്റ് ബട്ടൺ അത് മാനുവൽ ട്രിഗ്ഗർ മാറ്റിക്കൊണ്ടോ ഡിസ്പ്ലേ കീ ഉപയോഗിച്ചോ നിങ്ങൾക്ക് ഒരു ഓഫ്സെറ്റ് സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ വീണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് ഓഫ്സെറ്റ് വ്യക്തമായി മാറ്റാൻ കഴിയും ഇപ്പോൾ മുമ്പ് ഇത് മൈനസ് 2 വോൾട്ട് മുതൽ 3 വോൾട്ട് വരെ പീക്ക് ടു പീക്ക് വോൾട്ടേജായിരുന്നു 0 മുതൽ 5 വോൾട്ട് വരെ ഇത് 5 വോൾട്ട് ആണെന്ന് നിങ്ങൾ കാണുന്നു എന്നാൽ ഇപ്പോൾ ഇത് 0 മുതൽ 5 വോൾട്ട് വരെയാണ് അതിനാൽ നിങ്ങൾക്ക് ഓഫ്സെറ്റ് മാറ്റാൻ കഴിയും ശരിയാണ് ഇത് ഒരു ഉയർന്ന നിലയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴ്ന്ന നിലയിലേക്ക് മാറ്റാൻ കഴിയും നിങ്ങൾക്ക് ഇത് മാറ്റുകയാണെങ്കിൽ വീണ്ടും കാണാൻ കഴിയും ഇപ്പോൾ ഇത് 3 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെയാണ് 2 വോൾട്ട് പീക്ക് ടു പീക്ക് ശരി നിങ്ങൾക്ക് അടുത്ത നോബ് വൈറ്റിലേക്ക് പോകാമോ അതിനാൽ ഫംഗ്ഷൻ ജനറേറ്ററിൽ നമ്മൾക്ക് ഈ ഫംഗ്ഷനുകൾ ഉണ്ട് എന്നാൽ ഇപ്പോൾ പ്രധാന കാര്യം എന്താണെന്നുവെച്ചാൽ സിഗ്നൽ പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്ക് എങ്ങനെ അറിയാം അല്ലെങ്കിൽ സിഗ്നൽ എങ്ങനെ അളക്കാൻ കഴിയും ശരി സ്ക്രീനിൽ ഒരു സൈൻ തരംഗമുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ സ്ക്വയർ വേവിലോട്ട് മാറ്റുകയാണെങ്കിൽ സിഗ്നൽ സ്ക്വയർ വേവിലേക്ക് മാറുന്നത് കാണാം നിങ്ങൾക്കത് അളക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഉപകരണം ഉപയോഗിക്കണം അതിനാൽ ആദ്യം നിങ്ങൾ ഫംഗ്ഷൻ ജനറേറ്റർ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ ഫംഗ്ഷൻ ജനറേറ്റർ എങ്ങനെ ഉപയോഗിക്കാം athupayogichu മറ്റ് ചില ഉപകരണങ്ങളിൽ ഡിസ്പ്ലേ എങ്ങനെ കാണും അതിനായി ഈ ഫംഗ്ഷൻ ജനറേറ്ററിനെ ഓസിലോസ്കോപ്പ് എന്ന മറ്റൊരു ഉപകരണവുമായി ബന്ധിപ്പിക്കണം ഈ ഫംഗ്ഷൻ ജനറേറ്ററിനെ ഓസിലോസ്കോപ്പിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ചില കണക്റ്ററുകൾ ആവശ്യമാണ് അല്ലേ അതിനാൽ ഓസിലോസ്കോപ്പും ഫംഗ്ഷൻ ജനറേറ്ററും ബന്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ഈ കണക്റ്റർ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് ഓസിലോസ്കോപ്പിലേക്കും ഫ്രീക്വൻസി ജനറേറ്ററിലേക്കും കണക്റ്റുചെയ്യാനാകും നമുക്ക് ആവൃത്തി അളക്കാൻ കഴിയും വോൾട്ടേജിലെ മാറ്റം നമുക്ക് കാണാൻ കഴിയും രണ്ട് കാര്യങ്ങളും പരസ്പരം ബന്ധിപ്പിച്ച് സിഗ്നലിലെ മാറ്റം നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഇതാണ് നിങ്ങളുടെ BNC കണക്റ്റർ ഇതിനെ പൊതുവായി probe എന്നും വിളിക്കുന്നു BNC കണക്റ്റർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മൾട്ടിമീറ്റർ പ്രോബ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ജനറേറ്റർ പ്രോബ് ഓസിലോസ്കോപ്പ് പ്രോബ് എന്ന് പറയുക നിങ്ങൾക്ക് terms അറിയാമെങ്കിൽ അത് നല്ലതാണ് അതിനാൽ നമ്മളുടെ ഫംഗ്ഷൻ ജനറേറ്ററിനെ ഓസിലോസ്കോപ്പിലേക്ക് ബന്ധിപ്പിക്കണം ഇപ്പോൾ 2 ഓസിലോസ്കോപ്പുകൾ ഉണ്ട് ഒന്ന് ഇതാണ് മിക്ക സ്ഥലങ്ങളിലും നിങ്ങൾ ഇത് കണ്ടിരിക്കാം ധാരാളം സർവകലാശാലകൾ ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ ഇപ്പോഴും ഈ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുന്നു അത് നിങ്ങളുടെ CRO ആണ് അല്ലെങ്കിൽ കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഇതാണ് നിങ്ങളുടെ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ഇതിനെ DSO എന്നും വിളിക്കുന്നു ഡിഎസ്ഒ ടെക്ട്രോണിക്സിൽ നിന്ന് ഉള്ളതാണ് ഇത് പഴയ പതിപ്പ് ആണ് പക്ഷേ എനിക്ക് ഇതിനെ വ്യക്തിപരമായി ഇഷ്ടമാണ് ഞാൻ ബിരുദാനന്തര ബിരുദത്തിലായിരിക്കുമ്പോഴോ ബിരുദാനന്തര ബിരുദം നേടുമ്പോഴോ പിഎച്ച്ഡി ചെയ്യുമ്പോഴോ ഞാൻ ഈ ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചിരുന്നു അതിനാൽ ഒരുതരം ഓസിലോസ്കോപ്പുകളെ ക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട പക്ഷേ ഇവിടെയുള്ള ഗുണം എന്താണെന്നുവെച്ചാൽ നിങ്ങൾ ഈ വീതി കാണുന്നുണ്ടോ ഈ പ്രത്യേക ഓസിലോസ്കോപ്പിന്റെ വീതി ഇപ്പോൾ ഞാൻ നിങ്ങൾക്കു കാണിച്ചുതരാം വളരെ വലുതാണോ എന്തുകൊണ്ടാണ് ഇത് വളരെ വലുത് കാരണം നമ്മൾ സിആർടി കാഥോഡ് റേ ട്യൂബ് ഉപയോഗിക്കുന്നതിനാലാണ് അതായത് ഈ ഓസിലോസ്കോപ്പിനുള്ളിൽ വാക്വം സൃഷ്ടിക്കുന്നതിനാൽ ഇത് വലുതായിത്തീരുന്നു അതിനാൽ നിങ്ങളിൽ എത്രപേർ ഒരു സ്കോപ്പ് തുറന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇത് തുറക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു CRT കാണും CRT എന്ന പേര് കാഥോഡ് റേ ട്യൂബ് എന്നാണ് നിങ്ങൾ ടിവിയും കണ്ടിരിക്കാം പണ്ട് ടിവി വളരെ വലുതാണ് കാരണം അവിടെ സിആർടി ആണ് ഉണ്ടായിരുന്നത് ഞാൻ വാക്വം ഉള്ളിൽ ഒരു പിൻ വച്ചാൽ എന്ത് സംഭവിക്കും ഈ പ്രത്യേക ട്യൂബിലേക്ക് വായു കുതിച്ചുകയറും അതിനാലാണ് ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് കാരണം വാക്വം ഇല്ലാതാകുകയും വായു ഉള്ളിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നു എന്തായാലും ഒന്നും പൊട്ടിത്തെറിക്കാൻ നമ്മൾക്ക് താൽപ്പര്യമില്ല ഓസിലോസ്കോപ്പ് മനസിലാക്കാൻ നമ്മൾക്ക് താൽപ്പര്യമുണ്ട് അതിനാൽ ഇവിടെ കാഥോഡ് ഓസിലോസ്കോപ്പ് ഡിജിറ്റൽ ഓസിലോസ്കോപ്പുകൾ എന്നിവയുണ്ട് ഇപ്പോൾ ഈ ഫംഗ്ഷൻ ജനറേറ്ററിനെ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിലേക്ക് കണക്റ്റുചെയ്യുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം തുടർന്ന് നമ്മൾ രണ്ട് ഓസിലോസ്കോപ്പുകളും താരതമ്യം ചെയ്യും ഈ ഉപകരണങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെങ്കിൽ ധാരാളം സർക്യൂട്ടുകൾ പരീക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ധാരാളം പരീക്ഷണങ്ങൾ നടത്തുന്നത് മതിയാകും ശരിയാണ് അതിനാൽ ഫംഗ്ഷൻ ജനറേറ്റർ അറിഞ്ഞുകഴിഞ്ഞാൽ ഡിസി വൈദ്യുതി വിതരണം അറിഞ്ഞാൽ മൾട്ടിമീറ്റർ അറിഞ്ഞുകഴിഞ്ഞാൽ ഓസിലോസ്കോപ്പ് അറിഞ്ഞാൽ അത് പരീക്ഷണ ഭാഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ വീണ്ടും ഞാൻ സീതാറാമിനോട് ഫംഗ്ഷൻ ജനറേറ്ററിനെ ഓസിലോസ്കോപ്പിലേക്ക് ബന്ധിപ്പിക്കാൻ ആവശ്യപ്പെടും അതിനാൽ അവൻ എന്താണ് ചെയ്യുന്നത് അദ്ദേഹം probe ചാനൽ ഒന്നിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇത് ചാനൽ ഒന്നാണ് അല്ലേ എന്നിട്ട് അയാൾക്ക് ഓസിലോസ്കോപ്പ് ബന്ധിപ്പിക്കണം അയാൾക്ക് ഓസിലോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യണം അതിനാൽ ഓസിലോസ്കോപ്പിന്റെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കും ഒരുപക്ഷേ അടുത്ത മൊഡ്യൂളിലോ അല്ലെങ്കിൽ ഇതേ മൊഡ്യൂളിലോ നമുക്ക് നോക്കാം പക്ഷേ ആദ്യം നിങ്ങൾ ഫംഗ്ഷൻ ജനറേറ്ററിനെ ഓസിലോസ്കോപ്പിലേക്ക് എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് മനസ്സിലാക്കണം ഈ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ടെക്ട്രോണിക്സിൽ നിന്നുള്ളതാണ് ചുവടെ യുഎസ്ബി കണക്റ്റുചെയ്യുന്നതിന് ഒരു സ്ഥലമുണ്ട് അതിനർത്ഥം നിങ്ങൾക്ക് സിഗ്നൽ സംരക്ഷിക്കാൻ കഴിയും നിങ്ങളുടെ ഡാറ്റ നിങ്ങളുടെ യുഎസ്ബി ഡ്രൈവിൽ സംരക്ഷിക്കാൻ കഴിയും എന്നാണ് നാമെല്ലാവരും ഓസിലോസ്കോപ്പ് ഉപയോഗിച്ചതുപോലെ അല്ലേ ഒരു എക്സ് ആക്സിസ് ഉണ്ട് ഒരു വൈ ആക്സിസ് ഉണ്ട് അതിനുശേഷം ഒന്നിലധികം ചാനലുകൾ ഉണ്ട് ചാനൽ ഒന്ന് ചാനൽ 2 ഇപ്പോൾ നമ്മൾ കണക്റ്റുചെയ്യുമ്പോൾ ഓസിലോസ്കോപ്പിൽ ഏത് തരം തരംഗരൂപങ്ങൾ കാണാമെന്ന് നോക്കാം probeന് ഈ നീണ്ട നിൽക്കുന്ന ഒരു സാധനമുണ്ട് എന്നിട്ട് അദ്ദേഹം ഈ 2 പ്രോബുകളെയും കണക്റ്റുചെയ്യുന്നു കൂടാതെ ഈ ഹ്രസ്വവുമായി ബന്ധിപ്പിച്ചു ശരിയാണ് അതിനാൽ നിങ്ങൾ കണക്ഷൻ നൽകുമ്പോൾ ഹ്രസ്വമായത് ഹ്രസ്വവുമായിട്ടും ദൈർഘ്യമേറിയതു ദൈർഘ്യമേറിയതുമായിട്ടും കണക്റ്റു ചെയ്യണം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് സ്ക്വയർ വേവ് കാണാൻ കഴിയും പൊസിഷനിംഗിനായി ഒരു ഫംഗ്ഷൻ ഉണ്ട് ഒന്ന് ലംബ പൊസിഷനിംഗ് ഒന്ന് തിരശ്ചീന പൊസിഷനിംഗ് ഒരു ലംബ സ്ഥാനം അവൻ നീക്കുന്നു നിങ്ങൾ തിരശ്ചീനമായി നീങ്ങുമ്പോൾ ഇത് തിരശ്ചീനമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ലംബ അക്ഷം നീക്കുമ്പോൾ തരംഗരൂപം ലംബമായി നീങ്ങും ഇപ്പോൾ നിങ്ങൾ തിരശ്ചീനമായി കാണുന്നു രണ്ട് ചാനലുകൾക്കും ഇത് തുല്യമാണ് ഒരു തിരശ്ചീന സ്ഥാനം മാത്രം അല്ലേ ലംബമായിട്ടുള്ളതിനു 2 വ്യത്യസ്ത കാര്യങ്ങളുണ്ട് ഒന്ന് ചാനൽ ഒന്ന് ഒന്ന് ചാനൽ 2 ആണ് ഇപ്പോൾ നമ്മൾ ചാനൽ ഒന്നിലേക്ക് കണക്റ്റുചെയ്തു അതിനാൽ മഞ്ഞ ചാനൽ ഒന്നാണെങ്കിൽ നീല ചാനൽ 2 ആണ് ഇപ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിൽ സിഗ്നൽ മാറ്റാൻ കഴിയുമെങ്കിൽ സിഗ്നലിലെ മാറ്റം നമുക്ക് നോക്കാം ഇപ്പോൾ എനിക്ക് സ്ക്വയർ വേവ് മുതൽ സൈൻ വേവ് വരെ ഉണ്ടെങ്കിൽ ഒരു സൈൻ തരംഗമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ശരിയാണ് അവൻ 66 66 ഹെർട്സ് ആവൃത്തി മാറ്റുകയാണ് അതിനാൽ നിങ്ങൾക്ക് ആവൃത്തി വർദ്ധിപ്പിക്കാൻ കഴിയുമോ ഇപ്പോൾ ഇത് 1 കിലോഹെർട്സ് ആണ് അതിനാൽ ഒരു കിലോഹെർട്സ് ആവൃത്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് നോബ് മാറ്റാൻ കഴിയും അതിനാൽ നിങ്ങൾ നോബ് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു കിലോഹെർട്സ് ആവൃത്തി കാണാൻ കഴിയും വീണ്ടും സമയം വർദ്ധിപ്പിച്ചോ കുറച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഇത് വിശാലമാക്കാം അതിനാൽ ആവൃത്തിയിൽ മാറ്റമുണ്ട് അതേ ആവൃത്തിയിൽ നിങ്ങൾക്ക് ഓസിലോസ്കോപ്പിലെ മാറ്റം മികച്ചതായി കാണാൻ കഴിയും ഇപ്പോൾ ഇത് സ്ക്വയർ വേവിലേക്ക് മാറ്റാമോ നിങ്ങൾക്ക് ആവൃത്തി കുറച്ച് മാറ്റാൻ കഴിയുമോ നിങ്ങൾക്കത് ഒരു റാംപ് ആക്കാമോ അതിനാൽ റാംപ് നിങ്ങൾക്ക് സൈൻ തരംഗത്തിലേക്ക് മാറ്റാൻ കഴിയും നിങ്ങൾക്ക് സ്ക്വയർ വേവ് മാറ്റാൻ കഴിയും പ്രശ്നമില്ല അതിനാൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന അനിയന്ത്രിതമായ സിഗ്നൽ പൾസസ് ഇവിടെയുണ്ട് ഇപ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിൽ ഇവിടെ കാണിക്കുന്നതെന്തിനും സമാനമായത് ഓസിലോസ്കോപ്പിലും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഓസിലോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സിഗ്നൽ പ്രവർത്തിപ്പിച്ച് നിർത്താനും സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയുണ്ട് അതിനാൽ നിങ്ങൾ ഇപ്പോൾ സിഗ്നൽ പിടിച്ചെടുത്തതായി കാണുന്നു സിഗ്നലിന്റെ ഈ ക്യാപ്ചറിംഗ് നിങ്ങളുടെ യുഎസ്ബി ഡ്രൈവ് ഉപയോഗിച്ച് സംരക്ഷിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾക്ക് ഇത് ഫംഗ്ഷൻ ജനറേറ്ററുമായി ബന്ധിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ ഓസിലോസ്കോപ്പ് കണക്റ്റുചെയ്യാനാകും തുടർന്ന് നിങ്ങൾക്ക് യുഎസ്ബി തരത്തിൽ ഡാറ്റ സംരക്ഷിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഓസിലോസ്കോപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഒന്ന് നിങ്ങളുടെ സിആർടി ബേസ് അല്ലെങ്കിൽ സിആർഒ മറ്റൊന്ന് നിങ്ങളുടെ ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ആണ് അതിനാൽ രണ്ട് ഓസിലോസ്കോപ്പുകളും എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ DSO എന്ന ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് നിങ്ങൾക്ക് ഊഹിക്കാമോ അതിനാൽ നമുക്ക് ഓരോന്നായി പോകാം നിങ്ങൾക്ക് run നിർത്താൻ കഴിയുമോ നമ്മൾ ചർച്ച ചെയ്തതുപോലുള്ള 2 ചാനലുകൾ ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നു അല്ലേ ചാനൽ ഒന്ന് മഞ്ഞ നിറമാണ് ചാനൽ 2 നീല നിറമാണ് അല്ലേ ഈ ചാനൽ ഒന്ന് ചാനൽ 2 എന്നിവ ലംബ സ്ഥാനം മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇത് ചാനൽ ഒന്നിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ലംബ സ്ഥാനം മാറ്റാൻ കഴിയുമോ നിങ്ങൾ y അക്ഷത്തിലേക്ക് നോക്കുക അത് മാറുകയാണ് നിങ്ങൾക്ക് തിരശ്ചീന സ്ഥാനം മാറ്റാൻ കഴിയുമോ അതിനാൽ നിങ്ങൾക്ക് തിരശ്ചീനമായി അല്ലെങ്കിൽ ലംബ സ്ഥാനങ്ങൾ മാറ്റാൻ കഴിയും ഇത് കൊള്ളാം ഇപ്പോൾ ചാനൽ 2 നും സമാനമാണ് പക്ഷേ ചാനൽ 2 ന് ഇപ്പോൾ സിഗ്നൽ ഇല്ല അതിനാൽ ഒരുപക്ഷേ നമ്മൾക്ക് കാണാൻ കഴിയില്ല പക്ഷേ ആദ്യം ഓസിലോസ്കോപ്പ് ആരംഭിക്കുന്നതിന് നിങ്ങൾ ഓസിലോസ്കോപ്പിനെ compensating probeമായി ബന്ധിപ്പിക്കണം അതിനർത്ഥം നിങ്ങൾക്ക് probe ഉള്ളപ്പോൾ നിങ്ങൾ probe ഓസിലോസ്കോപ്പിലേക്ക് ബന്ധിപ്പിക്കുന്നു നിങ്ങൾ compensating probe നോബിലേക്ക് ബന്ധിപ്പിക്കും അദ്ദേഹം compensating probe നോബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതായി കാണാം മറ്റൊന്ന് ഗ്രൌണ്ടിലേക്കും എന്നിട്ട് അയാൾ ഓട്ടോ സെറ്റ് ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഇത് അമർത്തിയാൽ probe compensation ലഭിക്കും നിങ്ങളുടെ probeന് നഷ്ടപരിഹാരം നൽകിയ ശേഷം നിങ്ങളുടെ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കാൻ ആരംഭിക്കുക എല്ലാം ശരിയാണ് എല്ലായ്പ്പോഴും ഒരു probe നഷ്ടപരിഹാരം നൽകുന്നത് നല്ല പരിശീലനമാണ് ഇനി നമുക്ക് ഓസിലോസ്കോപ്പുകളുടെ പ്രവർത്തനത്തിലേക്ക് പോകാം ഇപ്പോൾ നമുക്ക് ലംബമുണ്ട് തിരശ്ചീനമായതും കണ്ടു ഇനി നമുക്ക് കണക്ക് പ്രവർത്തനം നോക്കാം എനിക്ക് ഗണിത ഫംഗ്ഷൻ മനസിലാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് കരുതുക അത് M ആണ് അപ്പോൾ ഈ ഗണിതശാസ്ത്ര പ്രവർത്തനം എന്താണ് ഇത് പ്രവർത്തനമാണോ ഇത് ഗുണനമോ സങ്കലനമോ അതോ കുറയ്ക്കലാണോ ഉദാഹരണത്തിന് ഒരു ഗുണനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു ഗുണനം ചെയ്യണോ എന്ന് നോക്കുക അതിനുശേഷം ഞാൻ ഈ പ്രവർത്തനം ഉപയോഗിക്കണം അതിനാൽ എനിക്ക് 2 വ്യത്യസ്ത വോൾട്ടേജുകൾ പ്രയോഗിക്കണം ഇപ്പോൾ ഒരു വോൾട്ടേജ് മാത്രമേ നൽകിയിട്ടുള്ളൂ 2 സിഗ്നലുകൾ ഉണ്ടെങ്കിൽ എനിക്ക് 2 സിഗ്നലുകൾ ഉപയോഗിച്ച് ഗുണിക്കാൻ കഴിയും മാത്രമല്ല എനിക്ക് ആ പ്രവർത്തനം നേടാനും കഴിയും അതുപോലെ എനിക്ക് സങ്കലനം ചെയ്യാൻ കഴിയും കുറയ്ക്കൽ ചെയ്യാൻ കഴിയും ഇപ്പോൾ എനിക്ക് സങ്കലനം ചെയ്യാൻ കഴിയും കുറയ്ക്കൽ ചെയ്യാൻ കഴിയും എല്ലാം ശരിയാണ് അതിനാൽ നമുക്ക് വെളുത്ത നോബുകൾ നോക്കാം ഡാറ്റ സംരക്ഷിക്കുന്നതിന് ടോപ്പ് നോബ് ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് അടുത്ത നോബ് ഉപയോഗിക്കാമോ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു ഓപ്പറേഷൻ ആണ് കാരണം ഇപ്പോൾ ഇത് ഗണിതശാസ്ത്ര മോഡിലാണ് അതിനാൽ ഇത് പ്രവർത്തനത്തിനായി ഉപയോഗിക്കാം അടുത്തത് ഉറവിട ചാനൽ ഒന്ന് അല്ലെങ്കിൽ ചാനൽ 2 സ്ഥാനം അല്ലേ എന്താണ് സ്ഥാനം ഇപ്പോൾ 0 സ്ഥാനമാണ് അതിനാൽ നിങ്ങൾക്ക് സ്ഥാനം മാറ്റാൻ കഴിയും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അടുത്തത് ലംബ സ്കെയിൽ വീണ്ടും നിങ്ങൾക്ക് ലംബ സ്കെയിൽ മാറ്റാൻ കഴിയും ലംബ സ്കെയിൽ നോബ് ഉപയോഗിച്ച് മാറ്റാൻ കഴിയും നോബ് സിഗ്നൽ വ്യത്യാസപ്പെടുത്തുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് FFT ഉപയോഗിക്കാമോ അതിനാൽ നിങ്ങൾക്ക് ഫോറിയർ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഫ്എഫ്ടി സിഗ്നൽ ഉപയോഗിക്കാം കൂടാതെ നിങ്ങൾക്ക് ഫോറിയർ ട്രാൻസ്ഫോർമും ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഒരു റഫറൻസ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില റഫറൻസ് സിഗ്നലുമായി ബന്ധപ്പെട്ട് സിഗ്നൽ പരിശോധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റഫറൻസ് ടെർമിനൽ ഉപയോഗിക്കാം ഒരു റഫറൻസ് RF ഉണ്ട് അതെ അതിനാൽ അത് REF നായുള്ള ഒരു ബട്ടണാണ് അതിനാൽ ഇവ ഓസിലോസ്കോപ്പിലെ നിരവധി ബട്ടണുകളാണ് ഇപ്പോൾ അതല്ലാതെ നമ്മൾക്ക് കഴ്സർ ഉണ്ട് അല്ലേ മുകളിൽ നമ്മൾക്ക് കഴ്സർ ഉണ്ട് എന്നിട്ട് നിങ്ങൾക്കത് ഓണാക്കണോ അതോ ഓഫ് ചെയ്യണോ ഇത് വ്യാപ്തിയോ അല്ലെങ്കിൽ സമയമോ ആണോ അതിനാൽ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡിലേക്ക് കണക്റ്റുചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആംപ്ലിറ്റ്യൂഡ് അമർത്തുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡിൽ ടോപ്പ് സിഗ്നൽ കാണും നമ്മളുടെ കഴ്സർ തരംഗരൂപത്തിന്റെ മുകളിലാണ് മറ്റൊന്ന് അടിയിൽ ആയിരിക്കണം അതിനാൽ എനിക്ക് മറ്റൊരു കഴ്സർ വേണമെങ്കിൽ കഴ്സർ 2 കാണുക നിങ്ങൾക്ക് ചുവടെയുള്ളത് നേടാം നിങ്ങൾക്ക് വോൾട്ടേജ് അളക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം കഴ്സർ 2 ലെ വോൾട്ടേജ് എന്താണ് കഴ്സർ ഒന്നിലെ വോൾട്ടേജ് എന്താണ് ശരിയല്ലേ അതിനാൽ നിങ്ങൾക്ക് കഴ്സർ ഒന്ന് കഴ്സർ 2 എന്നിവയുടെ വ്യത്യാസം അളക്കാൻ കഴിയും ഇതാണ് നിങ്ങളുടെ കഴ്സറിന്റെ ഉപയോഗം നിങ്ങൾ ചാനൽ ഒന്ന് അല്ലെങ്കിൽ ചാനൽ 2 കാണുന്നു നിങ്ങൾക്ക് എഫ്എഫ്ടി റഫറൻസ് ഫംഗ്ഷൻ റഫറൻസ് എ റഫറൻസ് ബി എന്ന ഗണിത ഫംഗ്ഷൻസ് മാറ്റാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ലഭിക്കുമ്പോൾ ധാരാളം ഓപ്ഷനുകൾ ഉണ്ട് ഇവ 70 മെഗാഹെർട്സ് ഓസിലോസ്കോപ്പാണ് മുകളിൽ 70 മെഗാഹെർട്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ സംരക്ഷിക്കുക തിരിച്ചുവിളിക്കുക എന്നിവ നിങ്ങൾക്ക് സിഗ്നൽ സംരക്ഷിക്കാൻ കഴിയുന്ന അതേ പ്രവർത്തനമാണ് നിങ്ങൾക്ക് പിന്നീട് അത് തിരിച്ചുവിളിക്കാനും കഴിയും സ്ഥിരസ്ഥിതി സജ്ജീകരണം എന്നത് നിർമ്മാതാവ് നൽകിയ സജ്ജീകരണമാണ് സ്ഥിരസ്ഥിതി സജ്ജീകരണം നമുക്ക് ഒരു സ്ഥിരസ്ഥിതി പ്രവർത്തനമായി ഉപയോഗിക്കാൻ കഴിയും കൂടാതെ നിങ്ങൾ ഈ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിനെ CRO മായി താരതമ്യം ചെയ്യുന്നു അതിനാൽ നമ്മൾ രണ്ട് കാര്യങ്ങളും താരതമ്യം ചെയ്യാം ഇപ്പോൾ ഇത് നിങ്ങളുടെ CR ഓസിലോസ്കോപ്പ് അല്ലെങ്കിൽ CRO ആണ് ഇത് ഒരു കാഥോഡ് റേ ഓസിലോസ്കോപ്പാണ് ഇതിൽ നിങ്ങൾക്ക് സമാനമായ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും പക്ഷേ കൂടുതൽ അപരിഷ്കൃതമായ രീതിയിൽ ആണെന്ന് മാത്രം അതിനാൽ എന്താണ് ഫംഗ്ഷനുകൾ എന്ന് നമുക്ക് നോക്കാം ആദ്യം തീവ്രതയും ഫോക്കസും ആണ് നമ്മൾ നോക്കുന്നത് കാരണം നമ്മൾ ഡിജിറ്റൽ ഓസിലോസ്കോപ്പിൽ എൽസിഡി അല്ലെങ്കിൽ എൽഇഡി ഉപയോഗിക്കുന്നു ഇവിടെ നമ്മൾ കാഥോഡ് റേ ട്യൂബ് ഉപയോഗിക്കുന്നു അതിനാൽ അവൻ തീവ്രത മാറ്റണം നമ്മൾ ഫോക്കസ് മാറ്റണം അതിനാൽ തീവ്രതയിലെ മാറ്റം കാണിക്കാമോ തീവ്രത മാറ്റുന്നതിലൂടെ നിങ്ങൾക്ക് മാറ്റം കാണാൻ കഴിയും സിഗ്നൽ ഫോക്കസിന്റെ തീവ്രത നിങ്ങൾ കാണുന്നു നിങ്ങൾ ഫോക്കസിംഗ് നോബ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ഫോക്കസ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇത് ഫോക്കസ് ചെയ്തിട്ടില്ല നിങ്ങൾ ഒരു പ്രത്യേക പോയിന്റ് ഫോക്കസ് ചെയ്യണം അപ്പോൾ നമ്മൾക്ക് ഒരു സ്ഥാനം ഉണ്ട് നിങ്ങൾ ലംബമായി തിരശ്ചീനമായി കാണുന്നു ആദ്യം നമുക്ക് ഒരു ലംബമായി ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്ക് സിഗ്നൽ തിരശ്ചീനമായി നീക്കാൻ കഴിയും അടുത്തത് തിരശ്ചീനമായി നിങ്ങൾക്ക് x അക്ഷത്തിന്റെ തിരശ്ചീനമായി സിഗ്നൽ നീക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് 2 സ്ഥാനങ്ങൾ ലംബമാണ് അല്ലേ ആദ്യ സ്ഥാനം ചാനൽ ഒന്നിനും രണ്ടാം സ്ഥാനം ചാനൽ 2 നും ആണ് അതിനാൽ ചാനൽ 2 ഉണ്ട് ചാനൽ ഒന്ന് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഓരോ ഡിവിഷനും വോൾട്ട് മാറ്റാൻ കഴിയും അതിനാൽ ഈ ഓസിലോസ്കോപ്പിലേക്ക് മറ്റൊരു probe ബന്ധിപ്പിക്കാം ഇവിടെയും നമുക്ക് probeന്റെ പരിശോധന നടത്താം അതിനാൽ probe ശരിയായി കണക്റ്റുചെയ്തിരിക്കുന്നതായി നിങ്ങൾ കാണുന്നതിനാൽ നമ്മൾ ഇപ്പോൾ ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ probe പരിശോധിക്കണം അതിനാൽ ഒരു പ്രോബ് അഡ്ജസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇത് കണക്റ്റുചെയ്യാൻ കഴിയും മറ്റൊന്ന് ഗ്രൌണ്ടിലോട്ടു ആയിരിക്കും എന്തായാലും ഇങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോബ് കണക്റ്റുചെയ്യാനും പ്രോബ് പരിശോധിക്കാനും കഴിയുന്നത് ശരി അതിനാൽ ഇതിനെക്കുറിച്ച് വിഷമിക്കേണ്ട പ്രോബ് പരീക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനവും ഓസിലോസ്കോപ്പിന് ഉണ്ടെന്ന് കാണിക്കാൻ മാത്രമാണ് ഇത് അതിനാൽ ഇപ്പോൾ ഈ ഓസിലോസ്കോപ്പിന് നിരവധി പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നാൽ ഈ ഓസിലോസ്കോപ്പിൽ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഒരു കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ സിഗ്നൽ കാണാൻ കഴിയും നിങ്ങൾക്ക് ഡാറ്റ സംരക്ഷിക്കാൻ കഴിയും ഇവിടെ ഇതിൽ നിങ്ങൾക്ക് ഡാറ്റ സംരക്ഷിക്കാൻ കഴിയില്ല ഇത് പോർട്ടബിലിനും ഭാരം കുറഞ്ഞതുമാണ് നിങ്ങൾക്ക് വേഗത്തിൽ താരതമ്യം ചെയ്യണമെങ്കിൽ ഇത് ഭാരം കുറഞ്ഞതല്ല അതൊരു കാര്യമാണ് അവസാന പോയിന്റ് സിഗ്നൽ അളക്കാൻ ഓസിലോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നു നമുക്ക് സിഗ്നൽ മാറ്റാൻ കഴിയും കൂടാതെ സമയം അളക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വ്യാപ്തി അളക്കുന്നതിലൂടെയോ സിഗ്നലിലെ മാറ്റം നമുക്ക് കാണാൻ കഴിയും നമ്മൾക്ക് പീക്ക് to പീക്ക് വോൾട്ടേജിലേക്ക് മാറ്റാൻ കഴിയും ഫംഗ്ഷൻ പൊരുത്തപ്പെടുത്തുന്നതിന് പോലുള്ള സഹായത്തിനായി വ്യത്യസ്ത ഫിൽട്ടറുകൾ പ്രയോഗിക്കാൻ കഴിയും തീർച്ചയായും ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും കൂടാതെ നിങ്ങൾ രണ്ട് ഓസിലോസ്കോപ്പുകളും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഓസിലോസ്കോപ്പ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് നിങ്ങൾക്ക് ഇത് ഉണ്ടെങ്കിൽ മികച്ചത് നിങ്ങൾ ഇത് ഉപയോഗിച്ചാലും ഇത് ഉപയോഗിച്ചാലും പ്രശ്നമില്ല നിങ്ങൾക്ക് ഫംഗ്ഷൻ ജനറേറ്റർ ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സിഗ്നൽ അളക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകരണമായി ഓസിലോസ്കോപ്പ് ഉപയോഗിക്കാം അതിനാൽ ഇപ്പോൾ വരെ നമ്മൾ കണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മിക്കാം അവസാന 3 മൊഡ്യൂളുകളിൽ ഇത് ഉൾപ്പെടെ ഞാൻ ശരിയായി റെക്കോർഡുചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേക ഘടകങ്ങൾ ഉപയോഗിച്ച് ആരംഭിച്ചു അപ്പോൾ നമ്മൾ ബ്രെഡ്ബോർഡ് കണ്ടു അല്ലേ ഘടകങ്ങളെ ബ്രെഡ്ബോർഡുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് നമ്മൾ കണ്ടു നമ്മൾ മൾട്ടിമീറ്റർ കണ്ടു മൾട്ടിമീറ്ററിനെ നിരവധി ഘടകങ്ങളുമായി ബന്ധിപ്പിച്ചു എന്നിട്ട് നമ്മൾ പ്രതിരോധം കപ്പാസിറ്റൻസ് വേരിയബിൾ എസി അല്ലെങ്കിൽ വേരിയക്കിൽ നിന്നുള്ള ആവൃത്തി എന്നിവ കണക്കാക്കി നമ്മൾ എസി വോൾട്ടേജ് അളന്നു നമ്മൾ ഡിസി വോൾട്ടേജ് അളന്നു തുടർന്ന് ഡിസി വൈദ്യുതി വിതരണം നമ്മൾ മനസിലാക്കി ഒന്ന് പഴയ പതിപ്പായിരുന്നു ഒന്ന് പുതിയ പതിപ്പായിരുന്നു ഏറ്റവും പുതിയ പതിപ്പിൽ പ്ലസ് മൈനസ് 15 വോൾട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വോൾട്ടേജും കറന്റും മാറ്റാൻ കഴിയും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അറിയില്ലെങ്കിൽ പരമാവധി കറൻറ് പ്രോബ്ൽ ആക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ട് നിങ്ങൾക്ക് ഗ്രൌണ്ട് ഉണ്ട് തുടർന്ന് ഇവിടെയുള്ള ഫംഗ്ഷൻ ജനറേറ്റർ നമ്മൾ കണ്ടു അപ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിന്റെ പങ്ക് എന്താണ് ഏത് തരത്തിലുള്ള സിഗ്നലുകൾ സൃഷ്ടിക്കാൻ കഴിയും അത് എങ്ങനെ ഉപയോഗിക്കാം ഒടുവിൽ ഓസിലോസ്കോപ്പുകളും നമ്മൾ കണ്ടു ഓസിലോസ്കോപ്പുകൾ 2 തരത്തിലാണ് ഒന്ന് ഡിജിറ്റൽ ഓസിലോസ്കോപ്പ് ഒന്ന് സിആർഒ CRO CRT അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് എൽസിഡി അല്ലെങ്കിൽ എൽഇഡിയിലാണ് ഇതിന് ഒന്നിലധികം ഫംഗ്ഷനുകളുണ്ട് ഇതിനെക്കാൾ മികച്ച പതിപ്പ് കുറവാണ് പക്ഷേ ഇപ്പോഴും രണ്ട് ഓസിലോസ്കോപ്പുകളും ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഓസിലോസ്കോപ്പുകളാണെന്നത് പ്രശ്നമല്ല ഓസിലോസ്കോപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നതാണ് ആശയം എല്ലാം ശരിയാണോ അതിനാൽ ഇനിപ്പറയുന്ന പ്രഭാഷണ ശ്രേണിയിൽ ഒരു വിപരീത ആംപ്ലിഫയറായോ അല്ലെങ്കിൽ വിപരീതമല്ലാത്ത ആംപ്ലിഫയറായോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഒരു ഫിൽട്ടറായി അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ പരീക്ഷണങ്ങളിൽ ഉപയോഗിക്കണം എന്നതാണു് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറും മറ്റ് നിരവധി പരീക്ഷണങ്ങളും ഉപയോഗിക്കും എന്നാൽ ഈ സർക്യൂട്ടിനൊപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തതുവരെ സർക്യൂട്ട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന പരീക്ഷണങ്ങളിൽ പ്രവർത്തിക്കുന്നത് പ്രയോജനകരമല്ല എന്നതാണ് കാര്യം അനലോഗ് സർക്യൂട്ടുകൾ എന്താണ് ഉപയോഗം നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്രയോഗിക്കാൻ കഴിയും സിഗ്നൽ അളക്കുന്നതിന് നിങ്ങൾക്ക് ഏതുതരം ഉപകരണങ്ങൾ ആവശ്യമാണ് ബയാസ് വോൾട്ടേജ് പ്രയോഗിക്കാൻ ഏത് തരം ഉപകരണങ്ങൾ ആവശ്യമാണ് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും മൾട്ടിമീറ്റർ ശരിയല്ലേ മൾട്ടിമീറ്ററിനുള്ളിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായി തോന്നാം പക്ഷേ കാര്യങ്ങൾ പുതുക്കുന്നത് ചില ഘട്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അതേ സമയം ശരിക്കും പുരോഗമിച്ച ധാരാളം കാര്യങ്ങൾ നമ്മൾ കാണും ഉദാഹരണത്തിന് നിങ്ങൾക്ക് എങ്ങനെ ഇൻഡിക്കേറ്റർ സർക്യൂട്ട് നിർമ്മിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഐസിയ്ക്കുള്ളിലുള്ളത് എന്താണെന്ന് മനസിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ നിങ്ങളുടെ ആദ്യ പ്രഭാഷണം ഞാൻ നടത്തി ഐസിയ്ക്കുള്ളിലുള്ളത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഐസി കെട്ടിച്ചമയ്ക്കാമെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങൾ കാരണം എനിക്ക് ഉറപ്പുണ്ട് മോസ്ഫെറ്റ് എങ്ങനെ കെട്ടിച്ചമച്ചതാണെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ഞാൻ നിങ്ങളോട് മുമ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു മോസ്ഫെറ്റ് കെട്ടിച്ചമയ്ക്കാൻ കഴിയുമോ പ്രോസസ് ഫ്ലോ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഒരുപക്ഷേ ഒരുപാട് ആളുകൾക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ പോയിന്റ് എന്താണെന്നുവെച്ചാൽ സിദ്ധാന്തം പഠിക്കുക മാത്രമല്ല പ്രായോഗിക പരിജ്ഞാനം ഉപയോഗിക്കുക എന്നതാണ് സിദ്ധാന്തത്തിൽ നമ്മൾ പഠിക്കുന്നതെന്തും ഏതെങ്കിലും രൂപത്തിൽ പ്രയോഗിക്കുകയും ചെയ്യണം ഈ പ്രത്യേക മൊഡ്യൂളിനുശേഷം കുറച്ച് പ്രഭാഷണങ്ങളിൽ പരീക്ഷണ വീക്ഷണകോണിൽ നിന്ന് നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയറുകളും മോസ്ഫെറ്റുകളും എങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം അതിനാൽ ഈ ഉപകരണത്തിലെ ഈ ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ ഈ കമ്പനികളിൽ നിന്നുള്ള ഉപകരണങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല നിങ്ങൾക്ക് വിവിധ കമ്പനികളിൽ നിന്ന് ഒരു ഉപകരണം ലഭിക്കുമ്പോൾ കൃത്യത റെസല്യൂഷൻ എന്നിവ ശ്രദ്ധിക്കണം അതിനാൽ നിങ്ങൾ ഡാറ്റാഷീറ്റ് മനസിലാക്കണം ഉപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നത് ഇതിനകം ഡാറ്റാ ഷീറ്റിൽ നൽകിയിരിക്കുന്നുമുണ്ട് ഈ പ്രത്യേക മൊഡ്യൂളുകൾ ഉപയോഗിച്ച് ഈ ഉപകരണങ്ങൾ എന്താണെന്ന് മനസിലാക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ സൌകര്യമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ കാണും കൂടാതെ നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ നടത്താൻ കഴിയുമെന്ന് നോക്കാം നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന നിരവധി പരീക്ഷണങ്ങളുണ്ട് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തും നമുക്ക് പാരാമീറ്ററുകൾ എങ്ങനെ അളക്കാമെന്ന് നോക്കാം അതിനാൽ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല ദിനം ആശംസിക്കുന്നു